എൻജിനീയറിങ് മാത്തമാറ്റിക്സ് I എന്ന കോഴ്സിലെ ലക്ച്ചറുകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പതിനാറാമത്തെ ലക്ച്ചർ ആണ് ഇതിൽ നമ്മൾ രണ്ട് വേരിയബിളുകളുള്ള ഫംഗ്ഷനുകളുടെ ടെയ്ലെഴ്സ് സിദ്ധാന്തത്തെക്കുറിച്ച് Taylor's Theorem for Functions of Two Variables പഠിക്കും ഏക വേരിയബിളിന്റെ ടെയ്ലെഴ്സ് സിദ്ധാന്തം Taylor's Theorem എന്താണെന്ന് നമുക്ക് ഒന്ന് ഓർത്ത് നോക്കാം f ന് x എന്നത് x0 ന് തുല്യമാകുന്ന ഒരു ഇടവേളയിൽ n1 വർഗ്ഗമുള്ള എല്ലാ ഡെറിവേറ്റീവുകളും ഉണ്ടെന്ന് കരുതുക ആ ഒരു അവസ്ഥയിൽ നമുക്ക് f എന്ന് എഴുതാൻ സാധിക്കും അപ്പോൾ ഇത് h എന്നതിന്റെ ചുറ്റുവട്ടത്തിൽ ഉള്ള ഒരു പോയിന്റ് ആണ് ഇതിനെ നമുക്ക് ഇങ്ങനെ ശ്രേണിയിൽ എഴുതാം

f Rn അപ്പോൾ ഉയർന്ന വർഗ്ഗമുള്ള ഡെറിവേറ്റീവുകളിലേക്ക് മിച്ചം കൂട്ടണം കാരണം നമുക്കിവിടെ തുല്യതയുണ്ട് ഇതിനെയാണ് നമ്മൾ ടെയ്ലെഴ്സ് പോളിണോമിയൽ Taylor's polynomial എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ മിച്ചം വരുന്നത് പിഴവ് കാണിക്കുന്ന പദമാണ് ടെയ്ലെഴ്സ് പോളിണോമിയൽ Taylor's polynomial അതിനെ h പവർ കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതൊരു തുടർച്ചയാണ് വീണ്ടും hn1n1 നമുക്ക് ഈ n1 രണ്ട് പോയന്റുകൾക്കിടയിലെ ഏതെങ്കിലും xi ലെ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ x0 നമ്മൾ എവിടെയാണോ ഇതിനെ വിപുലീകരിച്ചത് എന്നത് നമ്മൾ ഇവിടെ കാണുന്നത് x0h ലാണ് f n1 ξ x 0ξx അപ്പോൾ x0h എന്നത് x0 ന്റെ ചുറ്റുവട്ടത്തുള്ള പോയന്റ് ആണ് അപ്പോൾ നമ്മൾ n1 വിലയിരുത്തിയ ഇവിടുത്തെ xi പോയന്റ് നമുക്കറിയാത്ത ഡെറിവേറ്റീവ് ആണ് പക്ഷേ ഇത് നിലനിൽക്കുന്നുണ്ടെന്നും ഇത് x നും x0h നും ഇടയിലെവിടെയോ ആണ് നിലകൊള്ളുന്നതെന്നും കാണാം അപ്പോൾ നമുക്ക് വളരെ കൃത്യമായി ഇവിടെ x0h എന്നും എഴുതാം അപ്പോൾ ഇതാണ് x0 ന്റെയും x0h ന്റെയും ഇടയിലുള്ള പോയിന്റ് അപ്പോൾ ഇനി രണ്ട് വേരിയബിളുകളുള്ള ഫംഗ്ഷന്റെ ടെയ്ലെഴ്സ് സിദ്ധാന്തം നോക്കാം ഈ ഫംഗ്ഷൻ ഒരു D എന്ന ഡൊമൈനിൽ നിർവചിക്കപ്പെട്ടതാണ് അതുപോലെ ഈ പ്രതലത്തിലെ x0 y0 എന്ന പോയന്റിന്റെ ചുറ്റുവട്ടത്തുള്ള n1 മത്തെ കണ്ടിന്യൂസ് ഭാഗിക വർഗ്ഗ ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ fx0h y0k എന്ന രൂപത്തിൽ പ്രകടിപ്പിക്കാം ഇതും x0y0 എന്ന പോയന്റിന്റെ ചുറ്റുവട്ടത്തുള്ള പോയന്റ് ആണ് നമുക്ക് ഈ ഫംഗ്ഷന്റെ മൂല്യം ഈ പ്രയോഗത്തിന്റെ ചുറ്റുവട്ടത്തുള്ള മറ്റൊരു പോയിന്റ് കൊണ്ടും ലഭിക്കും h ∂∂xk ∂∂yn fx0y0Rn അപ്പോൾ fx0h y0k എന്നത് fx0y0 ശേഷം ഇത് ഏക വർഗ്ഗ പദമാണ് നമുക്കിവിടെ ഭാഗിക ഡെറിവേറ്റീവ് ആണ് ഉള്ളത് അപ്പോൾ ഇവ ഏക വർഗ്ഗ ഭാഗിക ഡെറിവേറ്റീവുകളാണ് അപ്പോൾ h നോട് കൂടെ x ന് അനുസൃതമായിട്ട് എടുക്കുന്ന ഭാഗിക ഡെറിവേറ്റീവും k യോട് കൂടെ y ക്ക് അനുസൃതമായിട്ട് എടുക്കുന്ന ഭാഗിക ഡെറിവേറ്റീവും ആണ് ശേഷം നമുക്ക് 1 നെ ഫാക്ടോറിയൽ പദങ്ങൾകൊണ്ട് ഹരിക്കുന്ന ഏക വേരിയബിളിന്റെ കാര്യത്തിലുണ്ടായിരുന്ന പദവും പിന്നീട് ഉയർന്ന വർഗ്ഗ പദങ്ങളും ആണുള്ളത് അപ്പോൾ തെളിവിൽ നമുക്ക് ഇത് ലഭിക്കും ഇനി h കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് നമുക്ക് ലഭിക്കും x ന് അനുസൃതമായിട്ടുള്ള ഡെറിവേറ്റീവിലേക്ക് k∂∂y എന്നതിനെ മൊത്തത്തിൽ സ്ക്വയർ ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാത്തിരിക്കണോ അപ്പോൾ നമുക്ക് ഇത് n വരെ തുടരാം അതുപോലെ 1n ലും fx0y0 എന്നും തുടരും അപ്പോൾ x0y0 ൽ ഈ ഭാഗിക ഡെറിവേറ്റീവുകൾ വിലയിരുത്താം ബാക്കിയുള്ള പദം മിച്ച പദമായി നിൽക്കും ഇതും ഈ പദങ്ങളുടെ പിന്തുടർച്ചയാണ് ഒരേയൊരു മാറ്റം എന്തെന്നാൽ n1 മത്തെ ഡെറിവേറ്റീവിന്റെ ഈ പോയിന്റിലെ വാദഗതിയാണ് അത് പ്രത്യക്ഷപ്പെടാൻ കാരണം അത് x0θhy0θk എന്നതുകൊണ്ട് വിലയിരുത്താം θ യുടെ മൂല്യം പൂജ്യത്തിനും ഒന്നിനും ഇടക്കാണ് h ∂∂xk ∂∂yn1 fx0θhy0θk 0θ അപ്പോൾ ഇത് അർത്ഥമാക്കുന്നത് ഇത് x0y0 എന്ന പോയിന്റിന്റെയും x0hy0kഎന്ന പോയന്റിന്റെയും ഇടയിലുള്ള പോയന്റ് ആണ് അപ്പോൾ ഈ ആദ്യത്തെ വാദഗതി പൂജ്യത്തിൽ നിന്നും ഒന്നിലേക്ക് മാറ്റുമ്പോൾ x0 മുതൽ x0h വരെ മാറുന്നുണ്ട് ഇവിടെ y0 പൂജ്യത്തിൽ നിന്നും ഒന്നിലേക്ക് പോകുമ്പോൾ അതുപോലെതന്നെ y0k വരെ മാറും അപ്പോൾ ഇനി നമുക്ക് ഈ ഫലത്തിന്റെ തെളിവിലേക്ക് പോകാം ഇതാണ് രണ്ട് വേരിയബിളുകളിലെ ടെയ്ലെഴ്സ് സിദ്ധാന്തം Taylor's Theorem എളുപ്പത്തിന് വേണ്ടി നമുക്ക് n2 എന്ന് എടുക്കാം അപ്പോൾ വിസ്താരത്തിൽ നമ്മൾ മൂന്നാമത്തെ വർഗ്ഗം വരെ പോകണം അപ്പോൾ നമ്മൾ x നെ x0th എന്നും y നെ y0th എന്നും എടുക്കും t എന്നത് 0 മുതൽ 1 വരെയുള്ള ഇടവേളയിലെ ചില ഘടകം ആണ് പൂജ്യവും ഒന്നും ഉൾക്കൊള്ളിച്ചു കൊണ്ടാണിത് ഇതിനെ നമ്മൾ ɸ കൊണ്ട് നിർവചിക്കാം അതായത് ɸfx0thy0tk ഈ h ഉം k ഉം മുൻപേ വിസ്താരത്തിൽ നല്കിയിട്ടുള്ളതാണ് അവ രണ്ടും നിശ്ചലമാണ് x0 y0 എന്ന പോയന്റും നിശ്ചലമാണ് ഇവിടെ പൂജ്യവും ഒന്നിന്റെയും ഇടയിലെ ഇടവേളയിൽ t മാറും അപ്പോൾ ഈ fx0thy0tk എന്ന ഫംഗ്ഷനിൽ x0 ഉം y0 ഉം നിശ്ചലമാണ് അതുപോലെ h ഉം k യും നിശ്ചലം ആണ് പക്ഷേ നമുക്കിവിടെ t എന്ന വേരിയബിൾ ഉണ്ട് അതുപോലെ ഏക വേരിയബിളിൽ ഉള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് t ക്ക് അനുസൃതമായിട്ട് ചെയ്യണം അപ്പോൾ ഇത് t ക്ക് അനുസൃതമായിട്ടുള്ള ഡെറിവേറ്റീവ് ആണ് ഇത് ഒരു സമ്മിശ്രമായ ഫംഗ്ഷൻ ആണെന്ന് ഓർക്കണം ഇവിടെ നമുക്ക് x ഉം y ഉം ഉണ്ട് ഈ x എന്നത് x0th ഉം y എന്നത് y0tk യുമാണ് മുൻപ് നമ്മൾ പഠിച്ച ഡിഫറെൻഷിയേഷൻ പ്രകാരം നമുക്ക് ɸ കാണാം അതായത് ɸ യെ t ക്ക് അനുസൃതമായിട്ടുള്ള ഡെറിവേറ്റീവായി എടുക്കാം അല്ലെങ്കിൽ f നെ t ക്ക് അനുസൃതമായിട്ടുള്ള ഡെറിവേറ്റീവായി എടുക്കാം കാരണം ഇത് x നെയും y നെയും t യുടെ ഘടനയിൽ എഴുതുമ്പോൾ ഇത് ഏക വേരിയബിളിലെ ഫംഗ്ഷൻ ആണ് അപ്പോൾ നമുക്ക് ഒരു മിശ്രിത സമവാക്യം കിട്ടും അതിൽ ∂f∂x dxdt എന്നിങ്ങനെ ഉള്ള പദങ്ങൾ ഉണ്ട് ഇനി നമ്മൾ ഇത് കണക്ക് കൂട്ടും ഇവിടെ dxdt ആണ് x എന്നത് x0th ആണ് അപ്പോൾ dxdt എന്നത് h മാത്രമായി അവശേഷിക്കും ഇത് h ആണ് ഇത് x ന് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നമുക്കിവിടെ t ക്ക് അനുസൃതമായിട്ടുള്ള y യുടെ k ത് ഡെറിവേറ്റീവ് കിട്ടും പിന്നീട് ∂∂y യുമാണ് പിന്നെ നമുക്ക് ഈ ∂f∂x എന്നതും ∂f∂y ഉം ഉണ്ട് അപ്പോൾ fxy എന്നത് നമ്മൾ പുറത്ത് എഴുതിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ f മാത്രമാവും അപ്പോൾ ഈ h ഉം ∂f∂x എന്നതും xy എന്ന പോയന്റിൽ x0thy0tk എന്ന പോയന്റും പിന്നീട് വീണ്ടും അതിനെ ∂f∂y ഉപയോഗിക്കുന്നതും ആണ് അർത്ഥമാക്കുന്നത് അതുപോലെ നമുക്ക് രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവ് കണക്കുകൂട്ടാം നമുക്ക് ഇവിടെ ഒന്നാം വർഗ്ഗ പദങ്ങൾ h നോട് കൂടെയുണ്ട് ഇത് ഇവിടെ h ഉം ഇവിടെ k യുമായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവ് കണക്ക് കൂട്ടാം h അതുപോലെ അവിടെ തുടരും ഈ ∂f∂x ന് നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിക്കും അപ്പോൾ വീണ്ടും x ന് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് എടുക്കും അപ്പോൾ ഈ ഇരട്ട ഡെറിവേറ്റീവും ഇവിടെ വീണ്ടും dxdt പദവും വരും പിന്നീട് h ഉം അതിലേക്ക് ∂2f∂y∂x എന്ന പദവും കൂട്ടണം അപ്പോൾ നമുക്ക് രണ്ടാം വർഗ്ഗ ഭാഗിക ഡെറിവേറ്റീവ് x നും y ക്കും അനുസൃതമായിട്ട് കിട്ടി പിന്നീട് ഈ k വരും കാരണം നമുക്ക് dydt പദം വീണ്ടും വരുന്നുണ്ട് അതിനാൽ ഈ ചെയിൻ റൂൾ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നു ഇതിൽ നിന്നും ∂f∂x അതുപോലെ ∂f∂y എന്നീ പദങ്ങൾ ഇവിടെ ഉണ്ട് അതിനാൽ വ്യക്തത വരുത്താൻ വേണ്ടി ഇതാണ് നമ്മൾ ∂f∂x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നത് ഈ h ഇവിടെ ആദ്യമേ ഉള്ളതാണ് ഇവിടെ ഈ k യും ഉണ്ടായിരുന്നു ddx∂f∂y എന്ന് ഇവിടെ കണക്കുകൂട്ടിയ ഈ പദമാണിത് അപ്പോൾ ഇത് t ക്ക് അനുസൃതമായിട്ടാണ് ഇവിടെ നമ്മൾ ഈ ചെയിൻ റൂൾ വീണ്ടും ഉപയോഗിക്കുന്നു ഈ രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവിലെ x ന് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് dxdt എടുക്കാം ഇത് h ആണ് ശേഷം yക്ക് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് എടുക്കാം ശേഷം dydt ചെയ്യും അത് k എന്നായിട്ട് വരും വീണ്ടും ഇത് ചുരുക്കി എഴുതുന്നു അപ്പോൾ ഇവിടെ h2 ശേഷം ഈ hk പിന്നെ ഈ k യും ഈ രണ്ടാം വർഗ്ഗ ഭാഗിക ഡെറിവേറ്റീവുകൾ തുല്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു നമുക്ക് രണ്ടു പദങ്ങളുണ്ട് 2 hk യും രണ്ടാം വർഗ്ഗ മിശ്രിത ഡെറിവേറ്റീവും അതിലേക്ക് k2 ഉം ഈ രണ്ടാം വർഗ്ഗ പദവും കൂട്ടണം പിന്നീട് നമ്മൾ മൂന്നാം വർഗ്ഗ പദത്തെയും കണക്കുകൂട്ടുന്നു അപ്പോൾ നമ്മൾ മൂന്നാം വർഗ പദം കാണുന്നതിനു മുൻപ് ഇതിനെ h2 2hkk2 എന്ന സൌകര്യപ്രദമായ രൂപത്തിലേക്ക് എഴുതി അപ്പോൾ hk2 പദവും അതുപോലെ സൂചിപ്പിക്കാനുള്ള സൌകര്യത്തിന് വേണ്ടി നമുക്ക് ഈ ∂ പോലെയുള്ളത് രണ്ടാം വർഗ്ഗ പദത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയും എടുക്കുന്നു ഇവിടെ hk പോലുള്ള മിശ്രിത പദമാണ് അതുപോലെ ഇവിടെ yy പദവും ഇപ്പോൾ രണ്ടാം വർഗ്ഗ പദവും അത് നമ്മൾ ഈ ബ്രാക്കറ്റിന് ഉള്ളിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്വയറിന്റെ ഉദ്ദേശം h2 ഉം രണ്ടാം വർഗ ഡെറിവേറ്റീവും എന്നത് ഒരു മൊത്തത്തിലുള്ള സ്ക്വയർ അല്ല പക്ഷേ ഇത് വെറും x ന് അനുസൃതമായിട്ടുള്ള രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവ് മാത്രമാണ് പിന്നെ k2 ഉം y ക്ക് അനുസൃതമായിട്ടുള്ള രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവും അതിനുശേഷം 2 hk യും മിശ്രിത വർഗ്ഗ ഡെറിവേറ്റീവുകളും വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൊത്തത്തിലുള്ള സ്ക്വയർ എന്നത് രണ്ടാം വർഗ്ഗ ഭാഗിക ഡെറിവേറ്റീവിന്റെ പദങ്ങളിൽ മാത്രമാണ് ഉള്ളത് അതുപോലെ നമുക്ക് മൂന്നാം വർഗ്ഗ ഡെറിവേറ്റീവ് കണക്കാക്കാം ഇത് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല ഇവിടെ ഈ h2 പദത്തിന് വീണ്ടും നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിക്കണം പിന്നെ ഇവിടെയും ഇവിടെയും ഉപയോഗിക്കണം അതായത് ഈ മൂന്ന് പദങ്ങളിലും അപ്പോൾ ആദ്യ പദത്തിൽ നിന്നുള്ള h2 ഉം പിന്നെ 2 hk യും k2 ഉം അങ്ങനെ തുടർന്നു പോവും വീണ്ടും നമ്മൾ ഈ ലഘൂകരിച്ച രൂപത്തിൽ ഇതിനെ എഴുതി മൂന്ന് തവണ h2 k എന്നത് പ്രത്യക്ഷപ്പെടുന്നു ഇവിടെ ഒരു h2k ഇവിടെയും h2k ഇവിടെയും h2k ഈ മൂന്നാം വർഗ ഡെറിവേറ്റീവുകളുടെ കണ്ടിന്യൂയിറ്റി നമ്മൾ അനുമാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആദ്യം x ന് അനുസൃതമായിട്ട് രണ്ട് തവണ എടുക്കുന്ന ഭാഗിക ഡെറിവേറ്റീവിനെ y ക്ക് അനുസൃതമായിട്ട് എടുക്കുന്ന ഭാഗിക ഡെറിവേറ്റീവും അല്ലെങ്കിൽ ആദ്യം y ലെ ഭാഗിക ഡെറിവേറ്റീവും പിന്നീട് രണ്ട് തവണ x ന് അനുസൃതമായിട്ടെടുക്കുന്ന ഡെറിവേറ്റീവും തുല്യമാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഇവ രണ്ടിനെയും തുല്യമായി പരിചരിക്കുമ്പോൾ നമുക്ക് ഈ പദങ്ങൾ ഉണ്ടാവും ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി എഴുതിയതാണ് കാരണം ഇത് ഒരു ക്യൂബ് ഉള്ള പദം പോലെയാണ് ഇത് h3 h2 k3 hk2 എന്നിങ്ങനെയുള്ള പദങ്ങളിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മൂന്നാം വർഗ ഡെറിവേറ്റീവ് പദങ്ങളെ ഒരുമിപ്പിക്കുകയും ചെയ്തു ഈ ക്യൂബ് ഉള്ള പദത്തിലും ഈ പോയന്റിലെ f ലും ഇത് തന്നെ ചെയ്തു ഇനി നമ്മൾ ɸ ക്ക് വേണ്ടിയുള്ള ടെയ്ലറുടെ സിദ്ധാന്തം Taylor's Theorem ഉപയോഗിക്കണം ɸ എന്നത് ഏക വേരിയബിളിൽ ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് അപ്പോൾ വീണ്ടും ഇവിടെ ഏക വേരിയബിളിൽ ഉള്ള ഒരു ടൈലറുടെ സിദ്ധാന്തമാണുള്ളത് ɸ എന്നത് ɸtɸ0t എന്നിങ്ങനെ ആകുമെന്ന് ഇത് പറയുന്നു മൂന്നാം വർഗ്ഗ പദം അതായത് t3 അതിനെ 3 കൊണ്ട് ഹരിക്കണം ഈ വർഗ്ഗത്തെ എത്രവേണമെങ്കിലും നമുക്ക് നീട്ടാം അതിലേക്ക് ɸ"θtഗുണിക്കണം ഇനി ഈ t യെ 1 കൊണ്ട് നമ്മൾ പകരം വെക്കും കാരണം t എന്നത് പൂജ്യത്തിൽ നിന്നും ഒന്നിലേക്കു പോകുന്നതാണ് ഇത് t യുടെ ഏതൊരു മൂല്യത്തിലും ശരിയാണ് അതായത് നമ്മൾ ഈ t ഒന്നിന് തുല്യമായി എടുക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് θ മാത്രം ലഭിക്കും ഇനി നമ്മൾ ഈ കണക്കുകൂട്ടിയ θ യെ പകരം ഉപയോഗിക്കും അപ്പോൾ ɸ എന്നത് ഈ ɸ' ɸ" എന്നതിനെ തുടരുന്നത് ആയിരുന്നു ഇതിനു കാരണം ടൈലറുടെ സിദ്ധാന്തമാണ് ശേഷം നമ്മൾ പകരം വെക്കണം അപ്പോൾ ഈ t ഇവിടെ 1 ആവും അതിനാൽ നമുക്ക് ഈ ɸ എന്നത് fx0thy0tk എന്ന് ലഭിക്കും ഈ പദം ɸ ആവും ഇനി t പൂജ്യം ആണെങ്കിൽ നമുക്ക് ഈ x൦y൦ ഉള്ള പദവും ɸ' ലഭിക്കും ഇവിടെ ɸ' എന്ന് പറഞ്ഞാൽ x0y0 എന്ന പോയന്റിലേതാണ് ഈ ബ്രാക്കറ്റിലുള്ള h ഉം ഒന്നാം വർഗ്ഗ ഭാഗിക ഡെറിവേറ്റീവും x0y0 എന്ന പോയന്റിൽ വിലയിരുത്തിയിരുന്നു അതുപോലെ രണ്ടാം വർഗ്ഗ പദത്തിൽ വീണ്ടും t യെ പൂജ്യമായി സ്ഥാപിച്ചിരിക്കുന്നു നമുക്ക് ഈ x0y0 പോയന്റ് ഉണ്ടാവും അതുപോലെ ഇവിടെ ഇത് ഈ മൂന്നാം വർഗ ഡെറിവേറ്റീവ് θ പോയന്റ് ആയിട്ട് കണക്കുകൂട്ടപ്പെടും അപ്പോൾ ഇവിടെ t ക്ക് പകരം θ യാണ് ഇവിടെയും θ പകരം ഉപയോഗിക്കും ശേഷം നമുക്ക് ഈ മൂന്നാം വർഗ പദം ഉണ്ടാകും അപ്പോൾ x0θhy0θk എന്നുണ്ടാവും ഈ ഒരു ഫലമാണ് നമുക്ക് രണ്ട് വേരിയബിളുകളുള്ള ഫംഗ്ഷന്റെ ടൈലർ സിദ്ധാന്തം തെളിയിക്കാൻ വേണ്ടത് പൊതുവിൽ പറയുമ്പോൾ ഏക വേരിയബിളിലെ ടൈലർ സിദ്ധാന്തത്തിന്റെ വിപുലീകരിച്ച രൂപമാണ് 2 വേരിയബിളുകളുടേത് അതായത് നമുക്ക് ഈ x0hy0k എന്ന ഈ ഫലം ആണ് ഉള്ളത് ഇത് നമ്മൾ തുടരുകയും ചെയ്യും അതായത് ഒരു സ്ക്വയർഡ് പദം ശേഷം ഒരു ക്യൂബിക് പദം അങ്ങനെ n ആമത്തെ വർഗ്ഗത്തിലെ ഭാഗിക ഡെറിവേറ്റീവിന്റെ പദവും ഉണ്ട് പിന്നെയുള്ളത് ഈ മിച്ച പദമാണ് ഇവിടെ നമുക്ക് പൊതു പദമായ x0θhy0θk എന്ന പദവും ഉണ്ടാവും ഈ θ പൂജ്യത്തിൽ നിന്നും ഒന്നുവരെ മാറും അപ്പോൾ ഈ x൦ എന്നത് x0h എന്നതിലേക്കും y0 എന്നത് y0k എന്നതിലേക്കും θ പൂജ്യത്തിൽ നിന്നും ഒന്നിലേക്ക് മാറുന്നതിന് അനുസൃതമായി മാറും ഇതാണ് ഇവിടുത്തെ യുക്തി ഇതിനെ മറ്റൊരു രൂപത്തിൽ f fx0y0 തുടങ്ങിയ പദങ്ങളുടെ പ്രയോഗത്തിലൂടെയും എഴുതാം ഇവിടെയുള്ള ഒരേയൊരു വ്യത്യാസം x0h എന്നതിലുള്ള പോയന്റിന് പകരം xy പോയന്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വീണ്ടും ഈ വ്യത്യാസം തന്നെ അപ്പോൾ ഈ h തന്നെയാണ് x0h ന്റെയും x0 ന്റെയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയും x ന്റെയും x0 ന്റെയും വ്യത്യാസം h ആവുന്നു അതായത് x x൦ എന്ന വ്യത്യാസം കൃത്യമായി പറഞ്ഞാൽ ഇവിടെ h ആണ് ഇവിടെയും നമുക്ക് ഈ h ആണ് ലഭിക്കുന്നത് കാരണം x0h ന്റെയും x0 ന്റെയും തമ്മിലുള്ള വ്യത്യാസം ഇതു മാത്രമാണ് അപ്പോൾ ഇവിടെ h ആണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇവിടെ നമ്മൾ x0y0 എന്നതിന്റെ അയൽപക്കത്തുള്ള x y എന്ന പോയന്റിനെ ആണ് എടുത്തിരിക്കുന്നത് ഈ x ന്റെയും x0 ന്റെയും തമ്മിലുള്ള വ്യത്യാസത്തെ ആണ് ഇവിടെ നമ്മൾ h ആയിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് അതായത് x x0 അതുപോലെ ഇവിടെ നിന്ന് y y0 ബാക്കിയുള്ളവയെല്ലാം തുല്യമാകും ഈ h മാത്രം ഇവിടുത്തെ θx പോലെയായിരിക്കും അതായത് θx x0 അതുപോലെ y0θk യും ഇതാണ് y y0 എന്ന പദം ബാക്കിയെല്ലാം പഴയപടി തന്നെ തുടരും ഇനി നമ്മുടെ അടുക്കൽ ഈ ടൈലർ വികാസത്തെ വച്ചുള്ള കുറച്ചു പ്രശ്നം ഉണ്ട് fxyx yxy എന്ന ക്വാഡ്രറ്റിക് പോളിനോമിയലിന്റെ അപ്പ്രോക്സിമേഷൻ കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ പ്രശ്നം 11 എന്ന പോയന്റിൽ ആണ് ക്വാഡ്രറ്റിക് പോളിനോമിയൽ നമ്മൾ വികസിപ്പിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മൾ മുഴുവൻ ടൈലർ സിദ്ധാന്തം എഴുതുന്നില്ല മറിച്ചു നമുക്ക് അപ്പ്രോക്സിമിഷൻ കണക്കാക്കേണ്ട ക്വാഡ്രറ്റിക് പോളിനോമിയൽ പദം മാത്രം അപ്പോൾ നമ്മൾ ഇതിനെ നമ്മുടെ സമവാക്യത്തിൽ ഉപയോഗിക്കുമ്പോൾ ഒന്ന് പിറകോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ വരെ x0y0 എന്ന പോയന്റിൽ വരെ നമ്മൾ എഴുതുകയാണ് ഇത് എന്നത് ഈ പോയന്റ് വരെയുള്ള ടൈലറുടെ പോളിനോമിയൽ ആണ് ഇനി ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ടൈലർ സിദ്ധാന്തം അല്ലെങ്കിൽ മിച്ച പദങ്ങളോട് കൂടെയുള്ള ടൈലർ പദം എന്ന് വിളിക്കും ഇനി ഈ മിച്ച പദത്തെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ x0y0 എന്ന പോയിന്റിന്റെ ചുറ്റുവട്ടത്തുള്ള ഈ പോയന്റിലെ f ന്റെ അപ്പ്രോക്സിമേഷൻ ആവും ഈ n നെ നമ്മൾ സ്ഥിരപ്പെടുത്തുകയും r n പദത്തെ എഴുതാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ടൈലറുടെ പോളിനോമിയൽ ഇവിടെ നമ്മൾ x0y0 എന്ന ഈ പോയന്റിന്റെ ഫംഗ്ഷന്റെ ക്വാഡ്രറ്റിക് പോളിനോമിയൽ ആണ് നമുക്ക് താല്പര്യം അതിന് നമുക്ക് x ന് അനുസൃതമായിട്ടെടുക്കുന്ന ഭാഗിക ഡെറിവേറ്റീവ് ലഭിക്കണം അതായത് y കോൺസ്റ്റൻഡായി പരിചരിച്ച് x ന് അനുസൃതമായി നമ്മൾ ഡിഫറെൻഷയ്റ്റ് ചെയ്യും ഇപ്പോൾ ഇവിടെ ഈ കോഷ്യേന്റ് റൂൾ അതുപോലെ അവിടെയുള്ള പൂർണ്ണ സ്ക്വയർ പദം അത് പോലെ ഈ ന്യുമേറേറ്റർ പദത്തിന്റെ x ന് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് ആയ 1 എന്ന ഈ പദം അതുപോലെ അതിനുശേഷം x y എന്ന മൈനസ് പദം ശേഷം 1 എന്ന് വരുന്ന x ന് അനുസൃതമായിട്ടെടുക്കുന്ന ഈ പദത്തിന്റെ ഭാഗിക ഡെറിവേറ്റീവ് എന്നിവയുണ്ട് ഇതിനെ നമ്മൾ ലഘൂകരിക്കുമ്പോൾ ഇവിടെ 2y എന്ന പദം ലഭിക്കും അപ്പോൾ 2yxy2 എന്ന് ലഭിക്കും ഇതിനെ നമ്മൾ 11 എന്ന പോയന്റിൽ വിലയിരുത്തുമ്പോൾ ഇത് 2 ആവും അതിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 12 കിട്ടും അപ്പോൾ നമുക്കിവിടെ 12 എന്ന പദം ലഭിക്കും അതുപോലെ y ക്ക് അനുസൃതമായിട്ട് നമ്മൾ ഭാഗിക ഡെറിവേറ്റീവ് എടുക്കും വീണ്ടും നമുക്ക് 2xxy2എന്ന് ലഭിക്കും 11 എന്ന പദത്തിൽ ഇതിനെ കണക്കുകൂട്ടുമ്പോൾ ഇത് ½ തരും അതുപോലെ ക്വാഡ്രറ്റിക് പദം ആയതുകൊണ്ട് നമുക്ക് ചുരുങ്ങിയത് രണ്ടാം വർഗ്ഗ പദത്തിലേക്കെങ്കിലും പോകണം അതായത് fxx അപ്പോൾ y യെ കോൺസ്റ്റന്റാക്കി വെച്ചു കൊണ്ട് x ന് അനുസൃതമായിട്ട് നമുക്ക് വീണ്ടും ഡെറിവേറ്റീവ് എടുക്കേണ്ടിയിരിക്കുന്നു അതിനാൽ ഈ 2y യെ നമുക്ക് കോൺസ്റ്റൻഡായി പരിചരിക്കാം അപ്പോൾ നമുക്ക് 1xy2 എന്നത് ഉണ്ട് അതിനെ x ന് അനുസൃതമായിട്ട് ഡെറിവേറ്റീവ് എടുക്കും അതായത് ഇത് 2xy2 ആവും അതുപോലെ 2 ഉം 2y ഉം കൂടെ 4yxy3 എന്നാവും ഇനി 11 എന്ന പോയന്റിൽ ഇത് ½ എന്നാവും ഇതുപോലെ fyy അതായത് y ക്ക് അനുസൃതമായിട്ട് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4xxy3 എന്ന് ലഭിക്കും ഇതിന്റെ 11 ലെ മൂല്യം വീണ്ടും 12 ആണ് അതായത് xy യെ 11 കൊണ്ട് പകരം വെക്കുമ്പോൾ നമുക്ക് 12 ലഭിക്കും അതുപോലെ ഈ മിശ്രിത വർഗ്ഗ പദത്തിൽ fx2yxy3 എന്നതിനെ y ക്ക് അനുസൃതമായിയിട്ട് ഡിഫറെൻഷ്യേറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഇവിടെ ഈ പദത്തിന് x ന് അനുസൃതമായിട്ട് ഡിഫറെൻഷ്യേറ്റ് ചെയ്ത് 2x 2yxy3 എന്ന് ലഭിച്ചതിനെ 11 എന്ന പോയന്റിൽ കണക്കുകൂട്ടുകയാണോ ചെയ്യേണ്ടത് 2x 2yxy3 എന്നതിന് നമുക്ക് പൂജ്യം എന്ന ലഭിക്കും കാരണം 11 എന്ന് പകരം വെക്കുമ്പോൾ അവിടെ 2 2 എന്നത് പൂജ്യം ആവും അപ്പോൾ നമ്മൾ ഇവിടെ fx നെ 11 ൽ വിലയിരുത്തി അത് 11 ൽ 12 ആണ് fxx എന്നത് ½ അതായത് രണ്ടാം വർഗ്ഗ പദം ½ അങ്ങനെയങ്ങനെ പോകുന്നു ഞാൻ പറഞ്ഞതുപോലെ രണ്ടാം വർഗ്ഗ പോളിനോമിയൽ നമ്മൾ രണ്ടാം വർഗ്ഗ പദം വരെ പോവുകയുള്ളൂ അപ്പോൾ നമുക്ക് f11 പിന്നെ x ന് അനുസൃതമായിട്ടുള്ള 11 എന്ന പോയന്റിലെ ഭാഗിക ഡെറിവേറ്റീവ് പിന്നെ ഇവിടെ മുതൽ ഇവിടം വരെ ഇവയെല്ലാം ഒന്നാം വർഗ്ഗ പദങ്ങളാണ് അപ്പോൾ ഈ fx11× ഈ വ്യത്യാസം h ന്റെ പദങ്ങളിലാണ് ശേഷം അതിലേക്ക് fy11 പിന്നെ എന്ന ഈ വ്യത്യാസവും വരും പിന്നീട് ½ ന്റെ കൂടെ രണ്ടാം വർഗ്ഗ പദം വരും എന്നത് 12 ആണ് കൂടെയൊരു ഉയർന്ന വർഗ്ഗ പദം ഉണ്ട് fxx ശേഷമുള്ള ഇത് h2 പദമാണ് അതായത് 2 ഇത് രണ്ട് ഇരട്ടിയാണ് എന്നാൽ ഈ 12 കാരണം അത് ഒന്ന് ആവും ഇനി ഇവിടെ പദവും കൂടെ y ക്ക് അനുസൃതമായിട്ടുള്ള രണ്ടാം വർഗ്ഗ പദവും അതിനോടു കൂടെ 2 പദവും വരും ഇനി നമുക്ക് ഈ മൂല്യങ്ങൾ ഇവിടെ പകരം നൽകാം f11 എന്നത് ആ ഫംഗ്ഷൻ കാരണം പൂജ്യം ആകും fx11 എന്നത് 12 ആവും അപ്പോൾ നമുക്ക് ½ എന്ന് ഇവിടെയും വീണ്ടും ½ പിന്നെ ½ ഉം fxx ½ ഉം ഉണ്ട് ഇത് ¼2 ആവും ഇത് ഒരു മിശ്രിത വർഗ്ഗ പദം ആയതുകൊണ്ട് പൂജ്യം ആവും അപ്പോൾ ഇത് പൂജ്യം ആകും പിന്നെ നമുക്ക് 12 ഉണ്ട് ശേഷം വീണ്ടും 12 അതായത് ¼2 അപ്പോൾ ഇത് 11 എന്ന പോയിന്റിന്റെ ചുറ്റുവട്ടത്തുള്ള ഫംഗ്ഷന്റെ അപ്പ്രോക്സിമേഷൻ നൽകുന്ന ക്വാഡ്രറ്റിക് പോളിനോമിയൽ ആണ് ഈ 11 എന്ന പോയന്റിൽ നിന്ന് എത്രത്തോളം അകലെയാണ് നമ്മൾ എന്നതിന് ആശ്രയിച്ചാണ് ഈ പോളിനോമിയലിന്റെ കൃത്യത കാണുന്നത് അപ്പോൾ നമ്മൾ 11 ന്റെ വളരെ അടുത്ത ചുറ്റുവട്ടത്താണ് ഉള്ളതെങ്കിൽ ഇത് നമുക്ക് ഫംഗ്ഷന്റെ വളരെ നല്ലൊരു അപ്പ്രോക്സിമിഷൻ തരും ഇനി അടുത്ത ഒരു പ്രശ്നം നോക്കുകയാണെങ്കിൽ നമുക്ക് x2xyy2 എന്ന ഒരു ഫംഗ്ഷൻ ടൈലർ പോളിനോമിയൽ വെച്ച് ലീനിയറായി അപ്പ്രോക്സിമെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നിരിക്കുന്നത് ഫംഗ്ഷൻ ടൈലർ പോളിനോമിയൽ ഉപയോഗിച്ച് 11 എന്ന പോയന്റിൽ ലീനിയറായി അപ്പ്രോക്സിമെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് x 1≦0 1 എന്ന സ്ക്വയറിന് ഉള്ളിലുള്ള ഒരു പോയന്റിൽ അപ്പ്രോക്സിമിഷനിൽ ഉണ്ടാവുന്ന ഉയർന്ന പിഴവ് ആണ് കാണേണ്ടത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 11 എന്ന പോയന്റ് ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ ഈ പോയന്റിന് ചുറ്റും ലീനിയർ അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് ഈ ഫംഗ്ഷനെ വിപുലീകരിക്കുകയാണ് ഇപ്പോൾ ലീനിയർ പദങ്ങൾ മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ ലീനിയർ അപ്രോക്സിമേഷനിലെ ഉയർന്ന പിഴവാണ് കാണാനുള്ളത് അപ്പോൾ ഈ x ഇത് 0 1 ആണ് ഇവിടെ 0 1 0 1 അല്ലെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെ മൊത്തം h 0 2 ആണ് ഇവിടെ നമ്മൾ ഈ പോയന്റിന്റെ സ്ക്വയർ ചുറ്റുവട്ടത്ത് നിന്ന് ഏതെങ്കിലും ഒരു പോയന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ലീനിയർ അപ്രോക്സിമേഷനിലെ ഏറ്റവും ഉയർന്ന പിഴവ് എത്രയാണെന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത് ആ ഒരു സ്ഥിതിയിൽ നമ്മൾ നേരിട്ട് മിച്ച പദത്തെ ഉപയോഗപ്പെടുത്തും അപ്പോൾ നമുക്ക് fxxy കണക്കുകൂട്ടാം ഇതിവിടെ 2xy ആണ് അതായത് x ന് അനുസൃതമായിട്ട് കാണുന്ന f ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ഇവിടെ 2xy അതുപോലെ fyxy എന്നത് x2y ആണ് പിന്നീട് രണ്ടാം വർഗ്ഗ പദം ഇവിടെ ഇത് 2 മാത്രമാണ് അവിടെ y ക്ക് അനുസൃതമായിട്ട് എടുക്കുമ്പോൾ വീണ്ടും 2 തന്നെയാവും ഇനി മിശ്രിത പദം കൊണ്ട് നമുക്ക് 1 നും പിന്നീട് ഈ ലീനിയർ പദത്തിനു ശേഷം എഴുതിയ മിച്ചവും കാണും ക്വാഡ്രറ്റിക് പദമാണ് മിച്ചം ആയിട്ട് വരാൻ പോകുന്നത് അപ്പോൾ വ്യക്തമായിട്ടും ഇതാണ് മിച്ചം ഇത് നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ് ഇതിനെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം അതായത് 2 എന്നും ഇത് രണ്ടാം വർഗ്ഗ പദമായ fxx ശേഷം 2 ഓട് കൂടെ മിശ്രിത വർഗ്ഗ പദവും പിന്നെ 2 നോട് കൂടെ y ക്ക് അനുസൃതമായി എടുക്കുന്ന രണ്ടാം വർഗ്ഗ പദവും ഉണ്ടാവും എല്ലാ രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവുകളും നമ്മൾ ആദ്യമേ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് അവയെല്ലാം യഥാർത്ഥത്തിൽ ഇവിടെ കോൺസ്റ്റൻഡാണ് അതായത് ഇവിടെ നമുക്ക് 2 ഉണ്ട് ഇവിടെ 1 ഉം പിന്നീട് വീണ്ടും 2 ഉം ലഭിക്കും ഇത് പകരം നൽകിയതിനു ശേഷം നമുക്ക് മിച്ച പദം ബാക്കിയുണ്ട് x 1 0 1 എന്നും y 1 0 1 എന്നും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അപ്പ്രോക്സിമേഷൻ ലഭിക്കാൻ വേണ്ടി ഉയർന്ന പിഴവ് എന്നത് R1≤ ഈ x 1 എന്നത് 0 അതായത് 0 12 ഇവിടെ വരും പിന്നീട് ഈ ഗുണനം വരും പിന്നെ ഈ 0 1 ഉം മൂന്ന് തവണ 0 12 വരുമ്പോൾ ഇത് 0 ഇനി അവസാനത്തെ പ്രശ്നത്തിലേക്ക് കടക്കുകയാണെങ്കിൽ cosxy എന്ന ഈ ഫംഗ്ഷനെ മൂന്നാമത്തെ ഡെറിവേറ്റീവ് വരെ ഉൾക്കൊള്ളുന്ന 00 എന്ന പോയന്റിൽ ഉള്ള ടൈലറുടെ സമവാക്യം ഇവിടെയുണ്ട് വീണ്ടും ഇത് ടൈലർ സിദ്ധാന്തം തന്നെയാണ് ഇതിൽ മിച്ച പദം ഉൾക്കൊണ്ടിട്ടുമുണ്ട് അതുപോലെ മൂന്നാം വർഗ പദങ്ങൾ വരെ പരിഗണിച്ചിട്ടുമുണ്ട് ആദ്യത്തെ അവസ്ഥയിൽ നമുക്ക് f00 യെ കണക്ക് കൂട്ടണം അപ്പോൾ cos 0 എന്നത് 1 ആവും പിന്നീട് നമുക്ക് fx എന്ന ഏക വർഗ്ഗ ഡെറിവേറ്റീവ് കാണണം അത് ഒരു മൈനസ് ആവും കാരണം cos തരുന്നത് sinxy ആണ് ഇത് 00 വിൽ പൂജ്യം ആവും y ക്ക് അനുസൃതമായിട്ട് എടുക്കുന്ന ഭാഗിക ഡെറിവേറ്റീവ് വീണ്ടും sin ആവും അതുകൊണ്ടു തന്നെ ഇത് അവിടെ 0 ആവും അതുപോലെ രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവ് ഇവിടെ sin എന്നത് cos ആവും അപ്പോൾ നമുക്ക് cos xy എന്ന ലഭിക്കും ഇതിനെ നമ്മൾ 00 എന്ന പോയന്റിൽ വിലയിരുത്തുമ്പോൾ ഇത് 1 എന്ന് തരും അപ്പോൾ മൂന്നാം വർഗ ഡെറിവേറ്റീവുകളിൽ നമ്മൾ വീണ്ടും sin xy ലേക്ക് തന്നെ എത്തും മൂന്നാം വർഗ ഡെറിവേറ്റീവിനെ നമുക്ക് θx പോയന്റിൽ കണക്കാക്കണം അപ്പോൾ θx പോയന്റിൽ ഇത് θxθy എന്നാവും ശേഷം ഇതിനെ നമുക്ക് ഈ വിസ്താരത്തിൽ പകരം നൽകാം അപ്പോൾ നമുക്ക് 1 ലഭിക്കും ഇത് പൂജ്യമാണ് കാരണം ഒന്നാം വർഗ്ഗ ഡെറിവേറ്റീവ് ആണ് വീണ്ടും ഇവിടെ 1 ആണ് മൂല്യം പിന്നീട് നമുക്കുള്ളത് sin ആണ് ഈ പദത്തിലെ മൂന്നാമത്തെ ഡെറിവേറ്റീവ് ലഘൂകരണത്തിനു ശേഷം നമുക്ക് sinθx θy എന്ന് ലഭിക്കും അപ്പോൾ നമുക്ക് 1 xy2 എന്ന് ലഭിക്കും ഇത് xy2 പദവും പിന്നീട് നമുക്ക് ഈ sin പദവും ലഭിക്കും കാരണം ഇത് sinθx θy ൽ പൊതുവായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് വേരിയബിൾ ഉള്ള ഫംഗ്ഷന്റെ ടൈലർ സിദ്ധാന്തം പഠിച്ചു ഇത് ഒരു വേരിയബിൾ ഉള്ള ഫംഗ്ഷന്റെതിന്റെ പിന്തുടർച്ചയാണ് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഈ പോയന്റ് ഇതിന്റെ ചുറ്റുവട്ടത്തുള്ളതാണ് നമുക്ക് ഈ ഫംഗ്ഷനെ വിപുലീകരിക്കാം അല്ലെങ്കിൽ ഇതിന്റെ മൂല്യം ലഭിക്കുകയോ ഈ വിപുലീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ മൂല്യം എഴുതുകയോ ചെയ്യാം അപ്പോൾ ഇവയാണ് ഒന്നാം വർഗ്ഗ പദങ്ങൾ രണ്ടാം വർഗ്ഗ പദങ്ങൾ നമുക്ക് h2 ന്റെയും k2 ന്റെയും 2hk യുടെയും പദങ്ങളിൽ ലഭിക്കും അത് പോലെ തന്നെ ഉയർന്ന വർഗ്ഗ ഡെറിവേറ്റീവുകളും ലഭിക്കും ഈ n വരെയുള്ള പദങ്ങളോ പിഴവുകളോ പിഴവിലെ അപ്പ്രോക്സിമേഷനുകളോ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഈ മിച്ച പദവും അതിൽ വരും ഈ ലക്ച്ചർ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് വളരെയധികം നന്ദി